കോണിക് സെക്ഷൻസ് - VI എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ കോണിക് സെക്ഷൻസിലെ മൊഡ്യൂൾ നമ്പർ 2 ലെക്ചർ 14 ലാണ് നിൽക്കുന്നത് ഈ പ്രഭാഷണത്തിൽ നമ്മൾ ഫോക്കസ് ഡയറക്ട്രിക്സ് focus - directrix രീതി കോൺസെൻട്രിക് സർക്കിൾ രീതി ദീർഘചതുരം രീതി അല്ലെങ്കിൽ ഒബ്ലോങ് രീതി എന്നിവ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർക്ക് ഓഫ് സർക്കിൾ രീതി നോക്കാം ആർക്ക് ഓഫ് സർക്കിൾ രീതിയിൽ വലിയ അക്ഷം 100 മില്ലീമീറ്ററും ഫോസൈ തമ്മിലുള്ള ദൂരം 70 മില്ലീമീറ്ററുമുള്ള ഒരു അണ്ഡവൃത്തമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അണ്ഡവൃത്തം എങ്ങനെ നിർമ്മിക്കാം നമുക്ക് അതിന്റെ ഘട്ടങ്ങൾ നോക്കാം ഒന്നാമതായി നമ്മൾ 100 മില്ലീമീറ്ററുള്ള വലിയ അക്ഷം AB വരയ്ക്കുകയും അതിന്റെ മധ്യ പോയിന്റ് O കണ്ടെത്തുകയും വേണം ഇത് പോയിന്റ് A ഉം പോയിന്റ് B ഉം ആണ് ഇവയുടെ ഇടയിൽ ഉള്ള ദൂരം 100 മില്ലീമീറ്ററാണ് 50 മില്ലീമീറ്ററിൽ നമ്മൾ O കണ്ടെത്താൻ പോകുന്നു ഇത് ചെയ്തുകഴിഞ്ഞാൽ ഫോസൈ കണ്ടെത്തുക ഇവ എബി യിലെ എഫ് 1 എഫ് 2 എന്നിവയാണ് എഫ് 1 ഒ ഒ എഫ് 2 എന്നിവ 35 എംഎം വീതമാണ് പ്രധാന അക്ഷം 100 മില്ലീമീറ്ററാണ് ഒപ്പം ഫോസൈ തമ്മിലുള്ള ദൂരം 70 മില്ലീമീറ്ററുമാണ് അതായത് O ൽ നിന്ന് ഒരു ഡിവിഷൻ അടയാളപ്പെടുത്തണം അത് ഈ വശത്ത് 35 യൂണിറ്റും മറുവശത്ത് 35 യൂണിറ്റുകളുമാണ് ഡ്രോയിംഗിനുള്ളിൽ ഈ ഡൈമെൻഷൻസ് നമ്മൾ കാണിക്കാറില്ല എന്നതാണ് നമ്മുടെ അടിസ്ഥാന നിയമം നമ്മൾ ആ രേഖകൾ പുറത്ത് നീട്ടി അത് കാണിക്കണം അതിനാൽ നമ്മൾ ഫോസൈ F1 F2 എന്നിവ കണ്ടെത്തിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകും ഇപ്പോൾ എബി യിൽ എഫ് 1 നും എഫ് 2 നും ഇടയിൽ 1 2 3 പോലുള്ള തുല്യ അകലത്തിലുള്ള പോയിന്റുകൾ അടയാളപ്പെടുത്തണം എഫ് 1 നും എഫ് 2 നും ഇടയിൽ ഈ പോയിന്ററുകൾ തുല്യ അകലത്തിലോ അല്ലാതെയോ അടയാളപ്പെടുത്താം തുല്യ അകലത്തിലുള്ള പോയിന്റുകളുമായി പോകുന്നതാണ് എല്ലായ്പ്പോഴും നല്ലതു അതിനാൽ ഗ്രിഡിൽ ഇത് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാം പോയിന്റ് നാലാമത്തെ പോയിന്റ് ആയിരിക്കും ഇത് ചെയ്തുകഴിഞ്ഞാൽ എഫ് 1 കേന്ദ്രമായും എ മുതൽ 1 വരെയുള്ള ദൂരം ആരത്തിലും ഇരുവശത്തും ആർക്കുകൾ വരയ്ക്കുക അതിനാൽ കേന്ദ്രം എഫ് 1 ആയിരിക്കണം പക്ഷേ ദൂരം എ മുതൽ 1 വരെ ആയിരിക്കും ആ ദൂരം ഉപയോഗിച്ച് എബി യുടെ ഇരുവശത്തും മുകളിലും താഴെയുമായി ഓരോ ആർക്കുകൾ ഉണ്ടാക്കുക ഇപ്പോൾ ഫോക്കസ് എഫ് 2 കേന്ദ്രമായും ബി 1 ദൂരം ആരത്തിലും ഈ ദിശയിലും ആ ഭാഗത്തും ആർക്കുകൾ നിർമ്മിക്കുക ഇത് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് പോയിന്റുകൾ പി1 പി1' P1 P1' എന്നിവ ലഭിക്കും ഇത് F1 F2 ആണ് ഇത് F2 ആണ് ഇത് F1 ആണ് ഇപ്പോൾ പി2 നിർമ്മിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് എ മുതൽ 2 വരെയുള്ള ദൂരം ആരവും എഫ്1 കേന്ദ്രമായും ഇരുവശത്തും ആർക്കുകൾ വരയ്ക്കുക അതുപോലെ ബി2 ദൂരം ആരവും എഫ് 2 കേന്ദ്രമായും ഉപയോഗിച്ച് ഇരുവശത്തും വീണ്ടും ആർക്കുകൾ വരയ്ക്കുക ഇന്റർസെക്ഷൻ പോയിന്റുകളെ നമുക്ക് പി 2 പി 2' P2 P2' എന്ന് വിളിക്കാം എ ൽ നിന്ന് 1 വരെ ഉള്ള ദൂരവും ബി ൽ നിന്ന് 1 വരെയുമുള്ള ദൂരവും കൂട്ടിനോക്കിയാൽ അത് എല്ലായ്പ്പോഴും വലിയ അക്ഷത്തിന്റെ നീളം ആയ 70 എംഎം നൽകുന്നു നമുക്ക് ഇത് നോക്കാം ഇത് A1 ഉം ഇത് B1 ഉം ആണ് അതിനാൽ നമ്മൾ ഈ രണ്ട് ദൂരങ്ങൾ കൂട്ടിനോക്കിയാൽ അത് നമുക്ക് വലിയ അക്ഷത്തിന്റെ നീളം ആയ 70 മില്ലീമീറ്റർ നൽകണം അതുപോലെ നമ്മൾ എ മുതൽ 2 വരെ ഉള്ള ദൂരവും ബി മുതൽ 2 വരെ ഉള്ള ദൂരവും ഉപയോഗിക്കുകയാണെങ്കിൽ എ2 ബി2 ദൂരവും നമുക്ക് 70 എംഎം നൽകും ഈ രീതിയിൽ നമ്മൾ പോയിന്റുകൾ P2 P3 തുടങ്ങിയവ നിർമ്മിക്കും അതിനാൽ ഘട്ടം ഘട്ടമായി നിർമ്മിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉദാഹരണം ആരംഭിക്കാം വലിയ അക്ഷം 100 മില്ലീമീറ്ററാണ് അതിനാൽ ഈ ഡ്രോയിംഗ് ഷീറ്റിൽ നമുക്ക് നോക്കാം അതിനാൽ ഈ ഡ്രോയിംഗ് ഷീറ്റിൽ 100 മില്ലീമീറ്റർ അടയാളപ്പെടുത്താം നമുക്ക് ഈ പോയിന്ററുകളെ എ ബി A B എന്ന് വിളിക്കാം ഇനി നമുക്ക് കേന്ദ്രം കണ്ടെത്തണം അതിനായി നമുക്ക് ബൈസെക്ടറുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ 50 മില്ലീമീറ്റർ അടയാളപ്പെടുത്താം ഈ രേഖകൾ ചേർക്കുക അതിനാൽ O എന്നറിയപ്പെടുന്ന ആ സർക്കിളിന്റെ കേന്ദ്രമാണിത് ഇപ്പോൾ ഇരുവശത്തും 35 മില്ലീമീറ്ററിലുള്ള ഫോസൈ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നമുക്ക് സ്കെയിലിൽ നിന്ന് 35 മില്ലീമീറ്റർ അടയാളപ്പെടുത്താം ഇത് ആദ്യത്തെ ഫോസൈ ആണ് മറ്റൊന്ന് 70 മില്ലീമീറ്റർ അകലെയായിരിക്കും ഈ പോയിന്റിനെ F1 എന്നും ഈ പോയിന്റിനെ F2 എന്നും വിളിക്കുക അതിനുശേഷം നമ്മൾ എ മുതൽ 1 വരെ ദൂരം എടുക്കണം അതിനായി നമ്മൾ ഡിവിഷനുകളെ ഏകപക്ഷീയമായി അടയാളപ്പെടുത്തണം അല്ലെങ്കിൽ തുല്യ അകലത്തിൽ ഡിവിഷനുകളെ അടയാളപ്പെടുത്തണം ഇവിടെ നമുക്ക് തുല്യ വിഭജനം നടത്താം അതിനാൽ ഇത് 35 എംഎം ആണ് അതിനാൽ 7 പോയിന്റുകൾ അടയാളപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു നീളം 35 ആയതിനാൽ 7 5 എന്നത് 35 ആണ് അതിനാൽ നമുക്ക് 6 7 14 21 28 അകലങ്ങളിൽ പോയിന്റുകൾ അടയാളപ്പെടുത്താം അതുപോലെ ഇവിടെയും നീളം 35 ആണ് അതിനാൽ അടുത്ത പോയിന്റുകൾ 42 49 എന്നിങ്ങനെയായിരിക്കും ഡിവിഷനുകൾ അടയാളപ്പെടുത്തിയുകഴിഞ്ഞാൽ ദൂരം എ മുതൽ 1 വരെ അളക്കണം ഈ പോയിന്റുകൾക്ക് 1 2 3 4 5 6 എന്നിങ്ങനെ പേരിടാം നിങ്ങളുടെ കോമ്പസ് ഉപയോഗിച്ച് എ1 ദൂരം ആരവും എഫ്1 കേന്ദ്രമായി ഉപയോഗിച്ച് ഇരുവശത്തും ആർക്കുകൾ അടയാളപ്പെടുത്തുക അതുപോലെ ബി മുതൽ 1 വരെയുള്ള ദൂരം നാം കണ്ടെത്തണം അടുത്തതായി ഒരു ആർക്ക് നിർമ്മിക്കാൻ ഫോസൈ F2 ഉപയോഗിക്കുക നമ്മൾ ആ ഇന്റർസെക്ഷൻ പോയിന്റിനെ പി 1 പി 1 പി 1' പി 1' എന്ന് വിളിക്കുന്നു ഇപ്പോൾ എ മുതൽ 2 വരെ ദൂരം ആരവും എഫ്2 കേന്ദ്രമായി ഉപയോഗിച്ച് ഇരുവശത്തും ആർക്കുകൾ അടയാളപ്പെടുത്തുക അതിനുശേഷം ബി മുതൽ 2 വരെ ദൂരം ആരവും എഫ്2 കേന്ദ്രമായി ആയി ഉപയോഗിച്ച് വീണ്ടും ഇരുവശത്തും ആർക്കുകൾ അടയാളപ്പെടുത്തുക നമുക്ക് മറ്റൊരു പോയിന്റ് ലഭിക്കുകയും ഈ പോയിന്റ് P2 എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു അതുപോലെ മറ്റ് പോയിന്റുകൾ കണ്ടെത്തുന്നതിന് എ3 ദൂരവും ബി 3 ദൂരം ആരമായും എഫ് 1 എഫ് 2 എന്നിവ സെന്ററുകളായും ഉപയോഗിക്കുക ഇപ്പോൾ നമുക്ക് ഒരു സുഗമമായ കർവ് വരയ്ക്കാനാകും ഫ്രഞ്ച് കർവുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ പി 3 ലൂടെ കടന്നുപോകുന്ന ഒരു രേഖ നിർമ്മിക്കാൻ നമുക്ക് കഴിയും ആ രീതിയിൽ പോയിന്റ് ബി യിലൂടെയും ഈ പോയിന്റിലൂടെയും കടന്നുപോകുന്ന കർവ് നിർമ്മിക്കാൻ നമുക്ക് കഴിയും അതിനാൽ നമുക്ക് അണ്ഡവൃത്തം നിർമ്മിക്കാൻ കഴിയും ഇത് ആർക്ക് ഓഫ് സർക്കിൾ രീതിയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു വലിയ അക്ഷം ആവശ്യമാണ് അതിനാൽ ഇത് നിർമ്മാണ ലൈനുകളാണെങ്കിൽ 100 മില്ലീമീറ്റർ കാണിക്കണം നമുക്ക് ദൂരം അറിയാം അതിനാൽ ചെറിയ ഡൈമെൻഷൻസ് എല്ലായ്പ്പോഴും ഉള്ളിലാണ് കാണിക്കേണ്ടത് ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് കൺവെൻഷൻ നിർമ്മാണ പ്രക്രിയ ഇരുണ്ടതായിരിക്കുന്നതിനു പകരം വളരെ നേർത്തതായിരിക്കണം അതിനാൽ ഇത് 70 ആണ് ഇത് ഫോസൈ തമ്മിലുള്ള ദൂരം ആണ് ഇത് 100 ആണ് ഇപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു ഒരു അണ്ഡവൃത്തത്തിലേക്ക് ഒരു ടാൻജെന്റും നോർമലും എങ്ങനെ വരയ്ക്കാം ഉദാഹരണത്തിന് നമുക്ക് ഒരു അണ്ഡവൃത്തമായി നിർമ്മിച്ച കർവ്ന്റെ ഭാഗം ഉണ്ട് ഇപ്പോൾ ഒരു നോർമൽ അല്ലെങ്കിൽ ടാൻജെന്റ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് ഏതെങ്കിലും പോയിന്റ് തിരഞ്ഞെടുക്കുക ഈ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് R പോയിന്റിൽ ഇത് നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതാണ് നമ്മൾ വരച്ച അണ്ഡവൃത്തം അതിലേക്ക് ഒരു നോർമൽ നിർമ്മിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു ആ ആവശ്യത്തിനായി നമ്മൾ എന്തുചെയ്യണം നോർമൽ അല്ലെങ്കിൽ ടാൻജെന്റ് എവിടെയാണ് വരയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിച്ചതിന് ശേഷം ആ പോയിന്റ് R ഫോക്കസ് F1 ലേക്ക് ബന്ധിപ്പിക്കുക അതുപോലെ ഫോക്കസ് എഫ് 2 ഈ R ലേക്ക് ചേർക്കുക ഇപ്പോൾ നമുക്ക് ഒരു ആംഗിൾ ഉണ്ട് ഈ ആംഗിൾ F1 R F2 ആണ് ഇപ്പോൾ R കേന്ദ്രമാക്കി ഏതെങ്കിലും ഏകപക്ഷീയമായ ദൂരം അടിസ്ഥാനമാക്കി നമ്മൾ ഒരു ആർക് അടയാളപ്പെടുത്തി ഈ ആംഗിൾ നെ വിഭജിക്കണം അതിനാൽ അവിടെ നിന്ന് വീണ്ടും അതേ ദൂരത്തിൽ ഇരുവശത്തും ഒരു ആർക് ഉണ്ടാക്കുക അതിനാൽ നമുക്ക് ഒരു പോയിന്റ് ഉണ്ടായിരിക്കുകയും അത് നീട്ടുകയും ചെയ്യാൻ പറ്റും അതിനാൽ ഇത് ഇരുവശത്തും തുല്യ കോണുകളാക്കുന്നു ഈ പോയിന്റ് വിപുലീകരിക്കണം നമുക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നു അതിനാൽ നമ്മൾ ഒരു അണ്ഡവൃത്തത്തിലേക്ക് നോർമൽ നിർമ്മിച്ച രീതിയാണിത് ടാൻജെന്റ് എല്ലായ്പ്പോഴും നോർമലിനു 90⁰ ആയിരിക്കും അത് R വഴി കടന്നു പോവുകയും ഒരു പോയിന്ററിൽ മാത്രമേ സ്പർശിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് ടാൻജെന്റ് നിർമ്മിക്കാൻ കഴിയും നമുക്ക് ഇവിടെ മറ്റേതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എഫ് 1 ലേക്ക് ചേർക്കും ഉദാഹരണത്തിന് ഇവിടെ ഒരു നോർമൽ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ചെയ്യുന്നത് ഈ എഫ് 1 ഉം ഈ പോയിന്റും കണക്റ്റുചെയ്യുക എന്നതാണ് സമാനമായി ഈ എഫ് 2 നെ ബന്ധിപ്പിക്കുക ഇപ്പോൾ ഒരു ബൈസെക്ടർ ഉണ്ടാക്കി അതിൽ ചേർത്ത് നോർമൽ നിർമ്മിക്കുക ഇത് നോർമലാണ് അത് ടാൻജെന്റ് ആയിരിക്കും ഒരാൾ ഇവിടെ നോർമൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കുക വലിയ അക്ഷത്തിലോ ചെറിയ അക്ഷത്തിലോ കൃത്യമായി നിങ്ങൾ നോർമൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നേരെയായിരിക്കുമോ അതോ എഫ് 1 എഫ് 2 F1 F2 എന്നിവയിൽ നിന്നും രേഖകൾ ചേർക്കുകയും അതിനെ വിഭജിക്കുകയും ചെയ്യേണ്ടതുണ്ടോ അതിനാൽ നമുക്ക് അത് ശ്രദ്ധാപൂർവ്വം നോക്കാം പോയിന്റ് വലിയ അല്ലെങ്കിൽ ചെറിയ അക്ഷത്തിലാണെങ്കിൽ ആ കർവിലുള്ള ആ പോയിന്റിനെ രണ്ട് ഫോസൈ ലേക്ക് ബന്ധിപ്പിക്കുക എന്നതാണ് സാധാരണ നടപടിക്രമം അതിനാൽ ഞാൻ പോയിന്റ് ബി എഫ് 1 മായി ബന്ധിപ്പിക്കാൻ പോകുന്നു ആ വരി ഇതായിരിക്കും അതുപോലെ നമ്മൾ ഈ പോയിന്റിനെ F2 മായി ബന്ധിപ്പിക്കാൻ പോകുന്നു അതിനർത്ഥം ഈ പോയിന്റിൽ നിന്ന് ബി വീണ്ടും അതിനെ ബന്ധിപ്പിക്കുന്നു രണ്ടും ഇപ്പോൾ 0° അല്ലെങ്കിൽ 180° കോണാണ് നിർമ്മിക്കുന്നത് അതിനെ വിഭജിച്ചാൽ ഈ രേഖ തന്നെ ലഭിക്കും അതിനാൽ ഈ ഘട്ടത്തിൽ ഈ വൃത്തത്തിന്റെ നോർമൽ ഇതായിരിക്കും ടാൻജെന്റ് ഇതിനു ലംബമായിരിക്കും ഇവിടെയും ഇതുതന്നെ സംഭവിക്കുന്നു നോർമൽ ആ ദിശയിലും ടാൻജെന്റ് ഈ ദിശയിലുമായിരിക്കും നമ്മൾ സി പോയിന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നോർമൽ ആ ദിശയിലും ടാൻജെന്റ് മറ്റൊരു ദിശയിലുമായിരിക്കും ശേഷിക്കുന്ന പോയിന്റുകളിൽ എ ബി സി ഡി ABCD എന്നീ നാല് പോയിന്റുകൾ ഒഴികെ നമ്മൾ 0° മുതൽ 90° കോണുകളിൽ നിന്ന് ആ ദിശയിലേക്ക് പോകുമ്പോൾ ഈ നോർമൽ കോണുകൾ തുടർച്ചയായി വർദ്ധിക്കുന്നു അതിനാൽ ഈ ഷീറ്റിൽ നോർമലും ടാൻജെന്റും നിർമ്മിക്കാം അതിനാൽ ഡ്രോയിംഗ് ഷീറ്റിൽ നമുക്ക് കർവിന്റെ ഒരു ഭാഗം ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് തിരിച്ചറിയാം ഡ്രോയിംഗ് ഷീറ്റിൽ നോർമൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് ആയി ഇതിനെ നമുക്ക് പരിഗണിക്കാം ഇപ്പോൾ എഫ് 1 നെ ആ പോയിന്റുമായി ചേർക്കുക എന്നതാണ് നടപടിക്രമം ഇത് ഒരു നിർമാണ ലൈനാണ് അതുപോലെ ആ പോയിന്റുമായി F2 നെ ചേർക്കുക ഇപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചറിയുന്ന പോയിന്റ് ഇപ്പോൾ ആ ആവശ്യത്തിനായി അംഗുലർ ബൈസെക്ടർ ഉപയോഗിക്കുക നമ്മൾ ചെയ്യേണ്ടത് അ ഏകപക്ഷീയമായ ഒരു ദൂരം തിരഞ്ഞെടുക്കുക എന്നതാണ് ഇപ്പോൾ ഒരേ ദൂരത്തിൽ ഈ ഇന്റർസെക്ഷൻ പോയിന്റ് ഉപയോഗിച്ച് ഈ കർവ് വിഭജിക്കുക ഈ പോയിന്റ് കണ്ടെത്തി ഈ പോയിന്റുമായി ഇത് ചേർക്കുക ഇത് നോർമൽ MN ആയിരിക്കും ഒപ്പം ടാൻജെന്റ് എല്ലായ്പ്പോഴും അതിന് ലംബമായിരിക്കും അതിനാൽ ഈ ആവശ്യത്തിനായി നമുക്ക് സെറ്റ് സ്ക്വയറുകൾ ഉപയോഗിക്കാം സെറ്റ് സ്ക്വയറുകളെ ഈ രീതിയിൽ വിന്യസിക്കുക അല്ലെങ്കിൽ ഈ ലംബ രേഖകൾ നിർമ്മിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം നിങ്ങളുടെ ഡ്രാഫ്റ്റർ ഉപയോഗിക്കുക എന്നതാണ് തുടർന്ന് ഈ രേഖ വിപുലീകരിക്കുക അങ്ങനെ നമുക്ക് ടാൻജെന്റ് എസ് ടി ലഭിക്കും ഇതാണ് ആർക്ക് ഓഫ് സർക്കിൾ രീതി കൂടാതെ ടാൻജെന്റും നോർമലും എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിച്ചു അതിനാൽ ഇന്നത്തെ പ്രഭാഷണത്തിൽ ആർക്ക് ഓഫ് സർക്കിൾ രീതി നമ്മൾ പഠിച്ചു അതിനാൽ അണ്ഡവൃത്തം നിർമ്മിക്കുന്നതിന് തത്വത്തിൽ നാല് ജനപ്രിയ രീതികളുണ്ട് ഫോക്കസ് ഡയറക്ട്രിക്സ് focus - directrix രീതി കോൺസെൻട്രിക് സർക്കിൾ രീതി ഒബ്ലോങ് രീതി ആർക്ക് ഓഫ് സർക്കിൾ രീതി ഫോക്കസ് ഡയറക്ട്രിക്സ് രീതിയിൽ നമുക്ക് ഡയറക്ട്രിക്സും എസ്സെൻട്രിസിറ്റിയും അറിയാം കർവിന്റെ ഒരു പോയിന്റ് ലഭിക്കുന്നതിന് ഇവ രണ്ടും തമ്മിലുള്ള ദൂരം തുല്യമായി വിഭജിക്കുന്നു അതിനുശേഷം 45 ° രേഖ വരച്ച് അതിനെ വിഭജിച്ച് ഈ അണ്ഡവൃത്തം നിർമ്മിക്കുന്നു കോൺസെൻട്രിക് സർക്കിൾ രീതിയിൽ നമുക്ക് വലിയ അക്ഷം ചെറിയ അക്ഷം രണ്ട് സർക്കിളുകൾ എന്നിവയുണ്ട് നമ്മൾ രണ്ട് കേന്ദ്രീകൃത വൃത്തങ്ങൾ വരയ്ക്കുന്നു തുല്യ സംഖ്യയിൽ തിരശ്ചീനവും ലംബവുമായ രേഖകൾ വരച്ചുകൊണ്ട് നമ്മൾ ഈ അണ്ഡവൃത്തം നിർമ്മിക്കും ദീർഘചതുരം അല്ലെങ്കിൽ ഒബ്ലോങ് രീതിയിൽ നമുക്ക് വലിയ അക്ഷം ചെറിയ അക്ഷം ഒരു ദീർഘചതുരം എന്നിവയുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇത് സമാന്തരചലനം ആയിരിക്കും വലിയ അക്ഷത്തിലും ചെറിയ അക്ഷത്തിലും നമ്മൾ തുല്യ അകലങ്ങളിൽ ഉള്ള ഡിവിഷനുകൾ നിർമ്മിക്കും ചെറിയ അക്ഷത്തിന്റെ ഘടകങ്ങളെ വലിയ അക്ഷത്തിന്റെ ഘടകങ്ങളുമായി ബന്ധിപ്പിച്ച് ഇന്റർസെക്ഷൻ രേഖകൾ നേടുന്നു അവിടെ നിന്ന് ഈ അണ്ഡവൃത്തം നിർമ്മിക്കുന്നു ആർക്ക് ഓഫ് സർക്കിൾ രീതിയിൽ വലിയ അക്ഷവും ഫോസൈ തമ്മിലുള്ള ദൂരം നല്കിയിരിക്കും അതിനാൽ എ 1 പ്ലസ് ബി 1 A1 B1 എല്ലായ്പ്പോഴും വലിയ അക്ഷത്തിന്റെ നീളം നൽകുന്നു എന്ന തത്ത്വം ഉപയോഗിച്ച് നമ്മൾ അണ്ഡവൃത്തം നിർമ്മിക്കും ആ തത്വവും ദൂരവും ഫോസൈ F1 F2 കേന്ദ്രങ്ങളായി ഉപയോഗിച്ച് നിരവധി ആർക്കുകൾ നിർമ്മിക്കുകയും അവയെ വിഭജിക്കുകയും അണ്ഡവൃത്തം നിർമ്മിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒക്കെ ആണ് നമ്മൾ അണ്ഡവൃത്തം നിർമ്മിക്കുന്നത് പ്രത്യേകിച്ചും ഫോക്കസ് ഡയറക്ട്രിക്സ് രീതി വളരെ ജനപ്രിയമാണ് കാരണം ഡയറക്ട്രിക്സിൽ നിന്നുള്ള ദൂരത്തിൽ നിന്നും എസ്സെൻട്രിസിറ്റി അറിയാൻ കഴിയും അതിൽ നിന്നും ഒരു അണ്ഡവൃത്തത്തിനു എസ്സെൻട്രിസിറ്റി 1 ൽ കുറവാണെന്നും പരാബോള എസ്സെൻട്രിസിറ്റി 1 ന് തുല്യവും ഹൈപ്പർബോളയെ സംബന്ധിച്ചിടത്തോളം എസ്സെൻട്രിസിറ്റി 1 നെക്കാളും വലുതാണ് എന്ന് കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ പഠിച്ചു അതായത് ഡയറക്ട്രിക്സ് ദൂരവും എസ്സെൻട്രിസിറ്റിയും നമുക്ക് അറിയാമെങ്കിൽ തത്ത്വത്തിൽ ഒരു അണ്ഡവൃത്തമോ പരാബോളയോ ഹൈപ്പർബോളയോ നിർമ്മിക്കാൻ നമുക്ക് കഴിയും അടുത്ത ക്ലാസ്സിൽ ഈ നാല് രീതികൾ പ്രത്യേകിച്ചും ഫോക്കസ് ഡയറക്ട്രിക്സ് രീതി ദീർഘചതുരം രീതി എന്നിവ നമ്മൾ പരിശോധിക്കും പരാബോളകൾ നിർമ്മിക്കുന്നതിനുള്ള ടാൻജെന്റ് രീതിയും നമ്മൾ പഠിക്കും പരാബോളകളിലേക്ക് ടാൻജെന്റും നോർമലും എങ്ങനെ വരയ്ക്കാമെന്നും നമ്മൾ പഠിക്കും